ഹലോ സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എൻപിടിഇഎൽ മൂക്കിന്റെ കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം

ഐഐടി കാൺപൂർ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് വകുപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഈ കോഴ്സ് നൽകുന്നത് രവി ചന്ദ്രനാണ് നമ്മൾ എട്ടാം ആഴ്ചയിലാണ് മൊഡ്യൂൾ നമ്പർ 5 ലെക്ചർ നമ്പർ 47 ഈ മൊഡ്യൂളിനായി ഞാൻ ഒരുപക്ഷേ നിങ്ങൾ വികസിപ്പിക്കേണ്ട എല്ലാ കഴിവുകളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് വായനാ വൈദഗ്ധ്യവുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ മനപ്പൂർവ്വം അത് അവസാനം വരെയാക്കി അതിനാൽ ഒന്നുകിൽ ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറയുന്ന പ്രഭാഷണങ്ങൾക്ക് നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകുന്നു അല്ലെങ്കിൽ അവസാനം സൂക്ഷിക്കുന്നവയ്ക്ക് നിങ്ങൾ നല്ല ശ്രദ്ധ നൽകുന്നു നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇത് അവസാനത്തിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിലും പ്രാധാന്യം ഏറ്റവും കുറഞ്ഞതല്ല നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിൽ ഇത് വളരെ പ്രധാനമാണ് ഇപ്പോൾ ഈ മൊഡ്യൂളിൽ പ്രത്യേകിച്ചും നമുക്ക് വായനാ വൈദഗ്ധ്യത്തിന്റെ വിവിധ വശങ്ങളിലേക്ക് ആഴത്തിൽ പോകാൻ കഴിയില്ല എന്നാൽ നിങ്ങളുടെ വായന ഫലപ്രദമായി വികസിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് വിവിധ നുറുങ്ങുകൾ നൽകുന്ന സാങ്കേതികവിദ്യകളിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും നിങ്ങൾ അത് ഫലപ്രദമായി വികസിപ്പിച്ചുകഴിഞ്ഞാൽ വായനയുടെ വിവിധ വശങ്ങളുണ്ട് എന്നാൽ തുടക്കത്തിൽ നിങ്ങളുടെ വായനാ വൈദഗ്ദ്ധ്യം എങ്ങനെ വളരെ ഫലപ്രദമായി വികസിപ്പിക്കാമെന്ന് നോക്കാം ഞാൻ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നതിന് മുമ്പ് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതെന്താണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം മുമ്പത്തെ പ്രഭാഷണത്തിൽ അത് അവതരണ വൈദഗ്ധ്യത്തെക്കുറിച്ചും അവതരണ വൈദഗ്ധ്യത്തെക്കുറിച്ചുള്ള അവസാന പ്രഭാഷണമായിരുന്നു അത് വിഷ്വലുകളുടെ ഉദ്ദേശ്യം നിങ്ങൾക്ക് എങ്ങനെ വിഷ്വലുകൾ വെവ്വേറെ ഉപയോഗിക്കാം അല്ലെങ്കിൽ പവർ പോയിന്റ് അവതരണത്തിൽ വിഷ്വലുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നതിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതിനാൽ ദൃശ്യങ്ങളുടെ ഉദ്ദേശ്യം ആദ്യം വ്യക്തമായി മനസ്സിലാക്കണമെന്ന് ഞാൻ നിർദ്ദേശിച്ചു അവ പ്രധാന പോയിന്റുകൾ ചിത്രീകരിക്കുകയും വാക്കാലുള്ള സന്ദേശം ശക്തിപ്പെടുത്തുകയും പ്രേക്ഷക താൽപ്പര്യത്തെ ഉത്തേജിപ്പിക്കുകയും പ്രേക്ഷക ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നതാണ് ആ കാര്യത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ചില വിഷ്വൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകി പ്രത്യേകിച്ചും നിങ്ങൾ പവർ പോയിന്റ് ഉപയോഗിക്കുമ്പോൾ നീളമുള്ള വാക്യങ്ങൾ ഉപയോഗിക്കരുത് ബുള്ളറ്റ് പോയിന്റുകൾ ഉപയോഗിക്കുക കൂടാതെ നിങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന ഓഡിറ്റോറിയത്തിൻ്റെയോ പ്രഭാഷണ ഹാളിൻ്റെയോ ദൈർഘ്യത്തിന് അനുയോജ്യമയിരിക്കണം ഓരോ സ്ലൈഡിലും നിങ്ങൾ സ്പെല്ലിംഗ് പരിശോധിക്കേണ്ടതുണ്ട് നിങ്ങൾ വളരെ അകലെ നിന്ന് ദൃശ്യപരത പരിശോധിക്കേണ്ടതുണ്ട് പിന്നെ നീളമുള്ള സൂത്രവാക്യങ്ങൾ അവ്യക്തമാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ അതിനാൽ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം അവതരണം നൽകുമ്പോൾ പ്രൊജക്ടറിനും സ്ക്രീനിനും ഇടയിൽ നിൽക്കുന്നത് ഒഴിവാക്കണം അതിനാൽ നിങ്ങളുടെ നിഴൽ അതിനിടയിൽ വീഴാതിരിക്കുകയും അത് കാണാൻ ഇടവരാതിരിക്കെ തുടർന്ന് ആളുകൾ നിങ്ങളോട് മാറിനിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ നാണക്കേടുണ്ടാക്കും അവതരണം മുൻകൂട്ടി ഇമെയിൽ ചെയ്യുക പെൻ ഡ്രൈവിലോ ഡിവിഡിയിലോ പ്രിന്റ് ഔട്ടുകളിലോ പോലും പകർപ്പുകളുടെ രൂപത്തിൽ ഒരു ഹാർഡ് അല്ലെങ്കിൽ സ്പെയർ കോപ്പി സൂക്ഷിക്കുക ആവശ്യമെങ്കിൽ സുതാര്യതയുടെ രൂപത്തിൽ സ്ലൈഡുകൾ ചെയ്യുക തുടങ്ങിയ ചില അവതരണ പ്രായോഗികതകളും പരിശോധിച്ചു സാധ്യമെങ്കിൽ വേദിയിൽ പോയി കമ്പ്യൂട്ടർ ഉപയോഗിച്ച് റിഹേഴ്സൽ ചെയ്യുന്നത് നിങ്ങളുടെ പ്രാരംഭ പരിഭ്രാന്തിയെ മറികടക്കാൻ വളരെ സഹായകരവും പ്രയോജനകരവുമാണ് തുടർന്ന് ഞാൻ നിർദ്ദേശിച്ച ചില അന്തിമ നിർദ്ദേശങ്ങളുമായി ഞാൻ ഉപസംഹരിച്ചുഃ ആരുടെയെങ്കിലും നിർദ്ദേശങ്ങൾ തയ്യാറാക്കുകയും തുടർന്ന് ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നതിനുപകരം നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് വിഷയങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾ പഠിക്കണം നിങ്ങൾ ആഖ്യാന വൈദഗ്ധ്യവും വികസിപ്പിക്കണം ചെറിയ കഥകൾ പറയാനുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങൾ വികസിപ്പിക്കണം തുടർന്ന് നിങ്ങൾ ഒരു പ്രഭാഷണം നടത്തുമ്പോഴെല്ലാം നിങ്ങൾ ഒരു ഉദ്ദേശ്യത്തോടെ സംസാരിക്കണമെന്ന് മനസ്സിലാക്കുക അതിനാൽ നിങ്ങൾക്ക് ഒരു ഉദ്ദേശ്യവുമില്ലെങ്കിൽ പ്രേക്ഷകരെ അറിയിക്കാൻ നിങ്ങൾക്ക് ശക്തമായ എന്തെങ്കിലും ഇല്ലെങ്കിൽ വിനോദത്തിനായി മാത്രം അവിടെ പോകരുത് അതിനാൽ അത് ഒരു നല്ല ആശയമല്ല നിങ്ങൾ ഒരു വിദഗ്ധ പ്രഭാഷകനായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം കഥകൾ പോലും ഉപയോഗിക്കാൻ തുടങ്ങുകയും രസകരമായ വസ്തുതകൾ നൽകിക്കൊണ്ട് നർമ്മബോധം വളർത്തിയെടുക്കുകയും ചെയ്യുക നിങ്ങളുടെ പ്രഭാഷണം അല്ലെങ്കിൽ സംസാരം അല്ലെങ്കിൽ പ്രസംഗം ആരംഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ എല്ലായ്പ്പോഴും വ്യക്തമായി ആശയവിനിമയം നടത്തണമെന്ന് അവസാനം ഞാൻ ഊന്നിപ്പറഞ്ഞു ആദ്യത്തെ പ്രധാന കാര്യം വളരെ വ്യക്തമായി ആശയവിനിമയം നടത്തുകയും പ്രസംഗത്തിലുടനീളം ഞാൻ നിങ്ങളോട് വളരെ മുമ്പ് സംസാരിച്ച ഫലപ്രദമായ ആശയവിനിമയത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം സങ്കീർണ്ണമായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നതിനുപകരം ആശയവിനിമയത്തിൽ നിങ്ങൾ ലളിതവും സംക്ഷിപ്തവുമായിരിക്കണം നിങ്ങളുടെ സ്വന്തം അവതരണശൈലി വികസിപ്പിക്കാനും നിങ്ങൾ പഠിക്കണം എന്ന സന്ദേശം അവസാനം ഞാൻ നിങ്ങൾക്ക് നൽകി ഞാൻ പറഞ്ഞതെല്ലാം പ്രധാന മാർഗ്ഗനിർദ്ദേശങ്ങളാണ് എന്നാൽ നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വന്തം മനസ്സ് പ്രയോഗിക്കുക സർഗ്ഗാത്മകത ഉപയോഗിക്കുക നിങ്ങളുടെ സ്വന്തം അവതരണ ശൈലി വികസിപ്പിക്കുക നിങ്ങളുടെ അതുല്യമായ അവതരണ ശൈലി വികസിപ്പിച്ചുകഴിഞ്ഞാൽ ആരാധകർ നിങ്ങളെ പിന്തുടരും തുടർന്ന് നിങ്ങൾക്ക് ഒരു പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ദൃശ്യവൽക്കരിക്കുമെന്ന് ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോട് പറയുന്ന കൈയ്യടിയും ലഭിക്കും ഇപ്പോൾ ഒരു നല്ല അവതാരകനാകാൻ നിങ്ങൾ അവിടെ പോയി എന്തെങ്കിലും പറഞ്ഞാൽ മതിയാകില്ല നിങ്ങൾക്ക് ധാരാളം വായിക്കേണ്ടി വരും വാസ്തവത്തിൽ നിങ്ങളുടെ അവതരണത്തിന്റെ ഗുണനിലവാരം നിങ്ങളുടെ വായനയുടെ ഗുണനിലവാരത്തെ നേരിട്ട് ആശ്രയിച്ചിരിക്കും വായന തന്നെ ഒരു കലയാണ് നിങ്ങൾ അത് വികസിപ്പിക്കാൻ പഠിക്കേണ്ട ഒരു വൈദഗ്ദ്ധ്യം കൂടിയാണിത് വായനയുടെ രസകരമായ ചില വശങ്ങൾ എന്തൊക്കെയാണ് വായന യഥാർത്ഥത്തിൽ മനസ്സിനെ സജീവവും പുരോഗമനപരവുമാക്കുന്നു അതിനാൽ നിങ്ങൾക്ക് വളരെ സജീവമായ ഒരു പുരോഗമന ജീവിതം നയിക്കണമെങ്കിൽ വായനയ്ക്ക് അവസാനമില്ല നിങ്ങളുടെ ജീവിതത്തിലും കരിയറിലും ഉടനീളം നിങ്ങൾ വായിക്കേണ്ടതുണ്ട് തന്റെ അവസാന വാക്ക് വായിച്ച് അവസാന ശ്വാസം എടുക്കുകയും തന്റെ പ്രിയപ്പെട്ട പുസ്തകത്തെ മരണക്കിടക്കയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരാളാണ് അനുയോജ്യമായ വായനക്കാരൻ പുസ്തകം മരണക്കിടക്കയിലേക്ക് കൊണ്ടുപോകുന്നത് വരെ തന്റെ അന്ത്യശ്വാസം വലിക്കുന്നവൻ അതിനാൽ അത്തരം വായനാശേഷി വികസിപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ തുറന്ന കണ്ണുകളോടെയാണ് സ്വപ്നം കാണുന്നത് കാരണം നിങ്ങളെ പ്രചോദിപ്പിക്കാൻ ശ്രമിക്കുകയും നിങ്ങളെ പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നിരവധി ആളുകളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ പങ്കിടുന്നു വാസ്തവത്തിൽ നിരവധി ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിച്ച പുസ്തകങ്ങളുണ്ട് അതിന് ദശലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിനെ രൂപപ്പെടുത്താനും പരിവർത്തനം ചെയ്യാനും കഴിയും അതിനാൽ ഞാൻ ശേഖരിക്കുകയും നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയും ചെയ്യുന്ന മിക്ക ആശയങ്ങളും പുസ്തകങ്ങളിൽ നിന്നാണ് ശേഖരിക്കുന്നത് തീർച്ചയായും ഞാൻ എന്റെ സ്വന്തം പ്രായോഗിക അനുഭവവും പ്രായോഗിക നുറുങ്ങുകളും ചേർക്കുന്നു പക്ഷേ അതിൽ ഭൂരിഭാഗവും ഞാൻ കുട്ടിക്കാലം മുതൽ ആരംഭിച്ച എന്റെ വായനയിൽ നിന്നാണ് അതിനാൽ ആ വായനയിൽ നിന്ന് ഞാൻ ധാരാളം വസ്തുക്കൾ ശേഖരിച്ചു നിങ്ങൾ കൂടുതൽ വായിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അറിയുകയും അറിവ് ശക്തിയാണെന്നും നിങ്ങൾക്കറിയാം അത് അറിയുക മാത്രമല്ല ടെലിവിഷൻ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളുടെ ചിന്തയെയും ഭാവനയെയും ജ്വലിപ്പിക്കുന്നു നിങ്ങൾ ഒരു ടെലിവിഷൻ കാണുമ്പോൾ ആളുകൾ നിങ്ങൾക്കായി ഇതിനകം ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സോഫയിൽ കിടന്ന് ടെലിവിഷൻ ഷോ കാണുമ്പോൾ നിങ്ങളെ കൌച്ച് പൊട്ടറ്റോ എന്ന് വിളിക്കുന്നത് അതായത് ചിന്തിക്കുന്നതിനോ നിങ്ങളുടെ ഭാവന ഉപയോഗിക്കുന്നതിനോ നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അതേസമയം നിങ്ങൾ ഒരു നോവൽ വായിക്കുമ്പോൾ അത് നിങ്ങളുടെ ഭാവനയെ ജ്വലിപ്പിക്കുന്നു നിങ്ങൾ ഒരു വിമർശനാത്മക കൃതി അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു മെറ്റീരിയൽ പോലും വായിക്കുമ്പോൾ നിങ്ങളുടെ വിമർശനാത്മക ചിന്ത നിങ്ങളുടെ വിവേചനബോധം വികസിപ്പിക്കുകയാണ് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള നിങ്ങളുടെ കഴിവ് അതിനാൽ നിങ്ങൾ ഇത് വായിക്കുമ്പോൾ ഈ കാര്യങ്ങൾ വികസിക്കുന്നു അതിനാൽ നിങ്ങൾ ദിവസത്തിൽ കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും വായിക്കണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു അതിനർത്ഥം പത്രം മാഗസിൻ ചില പ്രധാന രേഖകൾ ഒരു നോവൽ വായിക്കുക അല്ലെങ്കിൽ ഒരു വ്യക്തിത്വ വികസന പുസ്തകം വായിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള എന്തും വായിക്കുക കാരണം ഉടൻ തന്നെ നിങ്ങൾ പഠിക്കും നിങ്ങൾ ഒരു പണ്ഡിതനാകും നിങ്ങൾ ഒരു പ്രശസ്ത പ്രഭാഷകനാകും നിങ്ങൾ ഒരു പ്രശസ്ത എഴുത്തുകാരനാകും നിങ്ങൾ ഒരു പ്രശസ്ത ആശയവിനിമയക്കാരനാകും പുതിയ പദാവലി നേടാനും പുതിയ ആശയങ്ങൾ നേടാനും നിങ്ങൾക്ക് സാധ്യമാണെന്ന് ഒരിക്കലും കരുതിയിട്ടില്ലാത്ത പുതിയ ആവിഷ്കാരം നേടാനും വായന നിങ്ങളെ സഹായിക്കുന്നു നിങ്ങളുടെ ആശയങ്ങൾ ആശയവിനിമയം നടത്തുന്നതിനുള്ള പുതിയ വഴികൾ നിങ്ങൾ കണ്ടെത്തുന്നു കാരണം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് വായിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നു എന്നാൽ ആധുനിക ജീവിതത്തിന്റെ ദുഃഖകരമായ ഭാഗം എന്താണ് അത് വേഗതയേറിയതും പിന്നീട് മാധ്യമങ്ങളാൽ പൂർണ്ണമായും സ്വാധീനിക്കപ്പെടുകയും തുടർന്ന് വായന സ്വയം ഇ ബുക്കിലേക്കും തുടർന്ന് മൊബൈൽ വായനയിലേക്കും വരികയും ചെയ്യുന്നു അതിനാൽ ആളുകൾക്ക് വായനയോടുള്ള അഭിനിവേശം നഷ്ടപ്പെട്ടു എന്നതാണ് സംഭവിച്ചത് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ മുമ്പ് ടി യിൽ ആളുകൾക്ക് വായിക്കാൻ വളരെയധികം താൽപ്പര്യമുണ്ടായിരുന്നു ആളുകൾ പുസ്തകങ്ങൾ വരാൻ കാത്തിരിക്കുകയായിരുന്നു അവർ സീരിയലുകൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ നിങ്ങൾക്ക് വായിക്കാൻ വിവിധ വഴികളുള്ളതിനാൽ ഇപ്പോൾ അഭിനിവേശം നഷ്ടപ്പെട്ടു എന്നാൽ അതേ സമയം തുല്യമായി മത്സരിക്കുന്ന ആഗ്രഹങ്ങളുണ്ട് ചിലപ്പോൾ കൂടുതൽ പ്രലോഭനവും രസകരവുമായ ആഗ്രഹങ്ങൾ നമ്മുടെ സമയവും പിന്നീട് മാനസിക ഇടവും ഉൾക്കൊള്ളുന്നു അത് ശരിയായി വായിക്കാൻ നമ്മെ അനുവദിക്കുന്നില്ല പലരും വായിക്കാൻ ഭയപ്പെടുന്നു അതിനാൽ നിങ്ങളിൽ ചിലർ അല്ലെങ്കിൽ നിങ്ങളിൽ ഭൂരിഭാഗവും വായിക്കാൻ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് നിങ്ങളുടെ സമയം വളരെയധികം ചെലവഴിക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നു വിവിധ സമയങ്ങളിൽ എനിക്ക് സമയമില്ലെന്ന് നിങ്ങൾ പറയുന്നു ഇപ്പോൾ നിങ്ങളിൽ പ്രത്യേകിച്ചും പൊതുവേ ഇത്തരത്തിലുള്ള വായന വികസിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ വായന മികച്ചതും വേഗമേറിയതുമായ രീതിയിൽ വികസിപ്പിക്കുന്നതിനുള്ള ചില സമയപരിശോധിത സാങ്കേതികവിദ്യകൾ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നു ഇപ്പോൾ ആദ്യത്തേത് പ്രിവ്യൂ ചെയ്യുന്നതും സാമ്പിൾ ചെയ്യുന്നതും ആണ് നിങ്ങൾ വായിക്കാൻ തുടങ്ങിയ രീതി നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ നിങ്ങൾ കോമിക് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അത് വായിക്കാൻ വളരെ എളുപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നു അല്ലെങ്കിൽ ഷെർലക് ഹോംസ് പോലുള്ള ചില ഡിറ്റക്ടീവ് ഫിക്ഷൻ വാക്കുകൾ അൽപ്പം ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾക്ക് അത് വളരെ വേഗത്തിൽ വായിക്കാൻ കഴിയും പക്ഷേ ഏതെങ്കിലും ശാസ്ത്രീയ രേഖ ഗവേഷണ ലേഖനം അല്ലെങ്കിൽ നിയമപരമായ രേഖ അല്ലെങ്കിൽ യുദ്ധവും സമാധാനവും പോലുള്ള ഒരു വലിയ നോവലിനെക്കുറിച്ച് പറയുമ്പോൾ അതിനാൽ നിങ്ങളുടെ വായനാ വേഗത കുറഞ്ഞു അത് ഗണ്യമായി മന്ദഗതിയിലായി ഇത് എങ്ങനെ വായിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നു ഇത്തരത്തിലുള്ള നോവലും ഇത്തരത്തിലുള്ള മെറ്റീരിയലും വായിക്കാൻ എനിക്ക് ഒരു ജീവിതകാലം എടുക്കുമെന്ന് തോന്നുന്നു ഇത് നിങ്ങളെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഒരു മന്ദഗതിയിലുള്ള വായനക്കാരനാണെന്നും വേഗത്തിലും മികച്ച രീതിയിൽ വായിക്കുന്നതിനുള്ള ചില അടിസ്ഥാന സാങ്കേതികവിദ്യകൾ നിങ്ങൾ പഠിച്ചിട്ടില്ലെന്നും മാത്രമാണ് വിവേകപൂർവ്വം വായിക്കുന്നത് സമർത്ഥമായി വായിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു അതിനാൽ എന്തെങ്കിലും പൂർണ്ണമായി വായിക്കാൻ പാടുപെടുന്നതിനുപകരം നിങ്ങൾ ചില സ്മാർട്ട് ടെക്നിക്കുകൾ പഠിക്കേണ്ടതുണ്ട് എന്താണ് പൂർണ്ണമായി വായിക്കേണ്ടതെന്ന് എന്താണ് പൂർണ്ണമായും വായിക്കേണ്ടത് നിങ്ങൾക്ക് പൂർണ്ണമായും ഇല്ലാതാക്കാനും ഉപേക്ഷിക്കാനും കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് ഏകദേശം 50 പുസ്തകങ്ങളിലൂടെയോ 50 പ്രോജക്ട് റിപ്പോർട്ടുകളിലൂടെയോ വായിക്കേണ്ടിവരുന്ന ഇത്തരത്തിലുള്ള അമിതമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കുകയും അതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുകയും ചെയ്താൽ മാത്രമേ ഒരെണ്ണം നിങ്ങൾക്ക് ഉപയോഗപ്രദമാകൂ എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വളരെയധികം ഉള്ളപ്പോൾ നിങ്ങൾ അത് എങ്ങനെ ചെയ്യും തുടർന്ന് പ്രസക്തമായ ഒന്ന് തിരഞ്ഞെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രിവ്യൂ അല്ലെങ്കിൽ സാമ്പിൾ ചെയ്യാം അതിനാൽ എന്തെങ്കിലും വളരെ ദൈർഘ്യമേറിയതും വായിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതുമായിരിക്കുമ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്നു സാധാരണയായി ഇത് നിങ്ങൾക്ക് നൽകാനോ പുസ്തകം എന്തിനെക്കുറിച്ചാണ് റിപ്പോർട്ട് എന്തിനെക്കുറിച്ചാണ് എന്നതിനെക്കുറിച്ച് വേഗത്തിൽ മനസ്സിലാക്കാനോ ചെയ്യുന്നു ഇത് ഒരു പുസ്തകമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അത് അച്ചടിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം പിന്നിലെ ഫ്ലാപ്പിലുള്ളതിന്റെ ഒരു ദ്രുത പ്രിവ്യൂ എടുക്കാം അതിനാൽ പുസ്തകത്തിന്റെ കഥയെക്കുറിച്ചുള്ള ചില അവലോകനങ്ങളോ ഹ്രസ്വമായ ആശയങ്ങളോ പരാമർശിക്കുന്ന കവറിന്റെ പിൻഭാഗത്താണ് ബാക്ക് ഫ്ലാപ്പ് പുസ്തകത്തിന്റെ ഹ്രസ്വമായ അവലോകനങ്ങൾ ബാക്ക് ഫ്ലാപ്പിലോ ഇൻസൈഡ് കവറിലോ ഉണ്ട് അതിനാൽ ഹ്രസ്വമായ വിമർശനാത്മക അവലോകനങ്ങളും പരാമർശിക്കപ്പെടുന്നു അതിനാൽ നിങ്ങൾക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ആ കാര്യങ്ങൾ ആദ്യം നിങ്ങൾക്ക് കുറച്ച് ധാരണ നൽകും ഉള്ളടക്കങ്ങൾ അധ്യായങ്ങളുടെ തലക്കെട്ടുകൾ തുടർന്ന് ആമുഖം എന്നിവയിലൂടെയും നമുക്ക് കടന്നുപോകാം പെട്ടെന്നുള്ള പ്രിവ്യൂവിനായി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെയും അവസാനത്തെയും ഏതൊരു അധ്യായവും അതിനിടയിലുള്ള ആദ്യ അധ്യായവും അവസാന അധ്യായവും ദ്രുത പ്രിവ്യൂവിനായി ഒരു അധ്യായവും അതിനിടയിലുള്ള ഒരു അധ്യായവും വായിക്കുക എന്നതാണ് എന്നാൽ നിങ്ങൾക്ക് ഒരു വിശദമായ പ്രിവ്യൂ വേണം തുടർന്ന് ആ ആദ്യ അവസാനത്തിലും അതിനിടയിലുള്ള ഏത് അധ്യായത്തിലും നിങ്ങൾക്ക് ആദ്യത്തെ രണ്ട് ഖണ്ഡികകൾ വായിക്കുന്ന ഒരു വിശദമായ രീതിയിലേക്ക് പോകാം എല്ലാ അധ്യായങ്ങളുടെയും ആദ്യ രണ്ട് ഖണ്ഡികകൾ ഇപ്പോൾ തന്നെ വായിക്കുകയും തുടർന്നുള്ള ഓരോ ഖണ്ഡികയുടെയും ആദ്യത്തെയും അവസാനത്തെയും വാക്യങ്ങൾ മാത്രം വായിക്കുകയും ചെയ്യുക അതിനാൽ ഓരോ ഖണ്ഡികയിലും നിങ്ങൾ ഓരോ അധ്യായത്തിലും വായിക്കുന്ന ആദ്യ രണ്ട് ഖണ്ഡികകൾ വായിക്കുകയും അതിനുശേഷം ഇനിപ്പറയുന്ന ഖണ്ഡികകളുടെ ആദ്യ വരിയും അവസാന വരിയും വായിക്കുകയും തുടർന്ന് അധ്യായം അവസാനിക്കാൻ പോകുമ്പോൾ അവസാന രണ്ട് ഖണ്ഡികകൾ വായിക്കുകയും അടുത്ത അധ്യായത്തിലേക്ക് പോകുകയും ആദ്യ രണ്ട് ഖണ്ഡികകൾ വായിക്കുകയും തുടർച്ചയായ ഓരോ ഖണ്ഡികയുടെയും ആദ്യത്തെയും അവസാനത്തെയും വാചകം മാത്രം വായിക്കുകയും അവസാന രണ്ട് ഖണ്ഡികകൾ മുഴുവൻ വായിക്കുകയും ചെയ്യുക ഇപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വിശദമായ ഒരു പ്രിവ്യൂ ലഭിക്കും ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ പ്രയോജനം എന്താണ് നിങ്ങളുടെ പിഎച്ച്ഡി സൂപ്പർവൈസർ നിങ്ങളോട് 100 പ്രബന്ധങ്ങൾ വായിക്കാനും നിങ്ങൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒന്ന് തിരഞ്ഞെടുക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനാൽ നിങ്ങൾ ഓരോ വാക്കും ഓരോ വാക്കും വായിക്കേണ്ടതില്ല പക്ഷേ നിങ്ങൾക്ക് ഈ പ്രിവ്യൂ ചെയ്യാം അതിനാൽ നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കാത്തത് ഇല്ലാതാക്കാനും നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കാത്തത് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്ന് തിരഞ്ഞെടുക്കാനും ഇത് നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾക്ക് പ്രിവ്യൂ ചെയ്യുന്നതിലൂടെ വേഗത്തിൽ ഇല്ലാതാക്കാനും നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒന്ന് തിരഞ്ഞെടുക്കാനും കഴിയും തുടർന്ന് നിങ്ങൾക്ക് കഴിയും ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന മറ്റ് സാങ്കേതികവിദ്യകൾ തുടർന്ന് നിങ്ങൾക്ക് പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വിശദമായി വായിക്കാം അടുത്ത സാങ്കേതികവിദ്യ എന്താണ് അടുത്തത് നിങ്ങൾ ഒരു പുസ്തകം വായിക്കുമെന്ന് തീരുമാനിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്കിമ്മിംഗിന് പോകാം എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്കിമ്മിംഗിന് പോകാം പക്ഷേ സ്കിമ്മിംഗ് സാധാരണയായി വായിക്കുന്നതിനോ വേഗത്തിൽ നോക്കുന്നതിനോ ഉപയോഗിക്കുന്നു പത്ര മാസികകൾ യാത്രാ ലഘുപത്രികകൾ പോലുള്ള ലളിതമായ ലളിതമായ വായനാ സാമഗ്രികൾ വേഗത്തിൽ വായിക്കാൻ ഇത് സഹായിക്കുന്നു അതിനാൽ നിങ്ങൾ വെറുതെ സ്കിം ചെയ്യുക അതിനാൽ ഇന്നത്തെ പ്രധാന വാർത്ത എന്താണ് അതിനാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കായികരംഗത്ത് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് സ്പോർട്സ് പേജിലേക്ക് പോയി ആരെങ്കിലും ഒളിമ്പിക് മെഡൽ നേടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക അതിനാൽ നിങ്ങൾക്ക് ആ വാർത്ത കാണണം അല്ലെങ്കിൽ ഈ മത്സരത്തിൽ ആർക്കെതിരെ ആരാണ് വിജയിച്ചത് അതിനാൽ നിങ്ങൾ അതിലേക്ക് പോകുകയും തുടർന്ന് വേഗത്തിൽ അത് വായിക്കാൻ തുടങ്ങുകയും ചെയ്യുക അതിനാൽ പുസ്തകം എന്തിനെക്കുറിച്ചാണ് എന്നതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ നേടാൻ സ്കിമ്മിംഗ് നിങ്ങളെ സഹായിക്കുന്നു അതിൽ മൂന്ന് ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു അതായത് ഈ പ്രീ റീഡിംഗ് ഘട്ടം ശരിയായ സ്കിമ്മിംഗ് അതായത് നിങ്ങൾ ഒരുതരം പ്രിവ്യൂ ചെയ്യാനും ഇതിൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുൻകൂട്ടി അറിയാനും ശ്രമിക്കുന്നു തുടർന്ന് നിങ്ങൾ വേഗത്തിൽ വായിക്കുകയും അതിൽ എന്താണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ അവലോകനം ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ ഇത് എങ്ങനെ വളരെ ഫലപ്രദമായ രീതിയിൽ ചെയ്യാം നിങ്ങളുടെ കണ്ണുകൾ കാന്തങ്ങൾ പോലെയാണെന്ന് സങ്കൽപ്പിക്കുക തുടർന്ന് കണ്ണുകൾ വളരെ വേഗത്തിൽ നീങ്ങുകയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേഗത്തിൽ നീങ്ങുകയും ചെയ്യുന്നു അതിനാൽ അത് കീവേഡുകൾ തിരഞ്ഞെടുക്കണം ഇപ്പോൾ നിങ്ങൾ ഈ കീവേഡുകൾ എവിടെയാണ് കണ്ടെത്തുന്നത് സാധാരണയായി ഒരു വാക്യത്തിൽ ഒരു പ്രധാന വാക്ക് ഉണ്ട് അതിനാൽ നിങ്ങൾ ആ വാക്ക് നീക്കം ചെയ്യുകയാണെങ്കിൽ അത് ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കത്തിന്റെ കാര്യത്തിൽ ശരിയായ അർത്ഥം നൽകുന്നില്ല ചിലപ്പോൾ ഈ പ്രധാന പദങ്ങൾ കീവേഡുകൾ ആദ്യ വാക്യത്തിലാണ് ഒന്ന് മധ്യ വാക്യത്തിലും ഒന്ന് ഖണ്ഡികയുടെ അവസാന വാക്യത്തിലുമാണ് പലപ്പോഴും അവയെ കാലിക വാക്യങ്ങൾ എന്നും വിളിക്കുന്നു നിങ്ങൾക്ക് അവയെ കണ്ടെത്താൻ കഴിയുകയും ഇവയിൽ നിന്ന് നിങ്ങൾക്ക് കീവേഡുകൾ ലഭിക്കുകയും ചെയ്താൽ നിങ്ങൾ വളരെ വേഗത്തിൽ സ്കിം ചെയ്യും കാരണം നിങ്ങൾക്ക് അത് മനസ്സിലാകും തുടർന്ന് നിങ്ങൾ വളരെ വേഗത്തിൽ വായിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ മൊത്തത്തിലുള്ള ആശയമായ സാരാംശം നിങ്ങൾക്ക് മനസ്സിലാകും അതിനാൽ ചിലപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടാകാം തുടർന്ന് നിങ്ങൾ സ്കിമ്മിംഗ് ചെയ്യാത്തതിനാൽ എന്തെങ്കിലും വായിക്കുന്നതിൽ നിങ്ങൾക്ക് നിരാശ തോന്നിയേക്കാം നിങ്ങൾ വളരെ പഴയ രീതിയിലാണ് വായിക്കുന്നത് അതിനാൽ ഓരോ വാക്കും വായനയുടെ കാര്യത്തിൽ നിങ്ങളുടെ വേഗത മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ചീഞ്ഞ മാർഗമാണ് അതിനാൽ പ്രത്യേകിച്ച് ഭാരം കുറഞ്ഞതും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ എന്തെങ്കിലും വായിക്കണമെങ്കിൽ സ്കിമ്മിംഗ് ഉപയോഗിക്കുക ഇപ്പോൾ അടുത്ത സാങ്കേതികവിദ്യ സ്കാനിംഗ് ആണ് ഇപ്പോൾ എന്താണ് സ്കാനിംഗ് നിർദ്ദിഷ്ട വിവരങ്ങൾ കണ്ടെത്തുന്നതിന് ഒരു വാചകം വേഗത്തിൽ വായിക്കുക എന്നതാണ് സ്കാനിംഗ് പ്രത്യേകിച്ചും ഉദാഹരണത്തിന് ഒരു നീണ്ട വാചകത്തിൽ നിന്ന് ചില അക്കങ്ങളോ പേരുകളോ അക്കങ്ങളോ വർഷമോ ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ അത് എങ്ങനെ ചെയ്യും ഇപ്പോൾ WH ചോദ്യങ്ങൾ ഉപയോഗിക്കുക ആരാണ് ഞാൻ തിരയുന്ന വ്യക്തി അവൻ ലണ്ടൻ ന്യൂയോർക്കിൽ എവിടെയാണ് താമസിക്കുന്നത് അവൻ എവിടെയാണ് സ്ഥലം തിരയുന്നത് അവൻ എന്താണ് ചെയ്യുന്നത് ഏത് സമയത്താണ് അവൻ പുറപ്പെടുന്നത് ട്രെയിൻ സമയം എത്രയാണ് ഈ വിമാനം പറന്നുയരാൻ പോകുന്ന ഗേറ്റ് എത്രയാണ് അതിനാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്കാൻ ചെയ്യുമ്പോൾ ഒരു ടെലിഫോൺ ഡയറക്ടറിയിൽ ഒരു നമ്പർ പരിശോധിക്കുമ്പോഴോ ട്രെയിൻ സമയങ്ങൾ പരിശോധിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇത് ഏത് വർഷമാണ് സംഭവിക്കുന്നതെന്ന് ചരിത്രപരമായ സംഭവങ്ങൾക്കായി തിരയുമ്പോഴോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജനനത്തീയതി അല്ലെങ്കിൽ ചില വിശദാംശങ്ങൾക്കായി തിരയുമ്പോഴോ നിങ്ങൾ ആ വ്യക്തിയിൽ ലഭ്യമായ ഏതെങ്കിലും ജീവചരിത്രപരമായ മെറ്റീരിയലിലേക്ക് പോകുമ്പോഴോ നിർദ്ദിഷ്ട വിവരങ്ങൾ നോക്കുക ഇപ്പോൾ സ്കാനിംഗ് സാധാരണയായി നിർദ്ദിഷ്ട വിവരങ്ങളുടെ ബിറ്റുകൾ മാത്രം തിരയുന്നതിനും പിന്നീട് ഒരു വാചകം വേഗത്തിൽ വായിക്കുന്നതിനും മാത്രമേ നിർദ്ദിഷ്ട വിവരങ്ങൾ കണ്ടെത്താൻ ഞാൻ നിങ്ങൾക്ക് ഇവിടെ നൽകേണ്ട നുറുങ്ങ് എന്താണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്കാൻ ചെയ്യേണ്ടിവരുമ്പോൾ സ്കിം ചെയ്യരുത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്കിം ചെയ്യേണ്ടിവരുമ്പോൾ സ്കാൻ ചെയ്യരുത് ചിലപ്പോൾ നിങ്ങൾ ഒരു വാക്ക് ഒരു നമ്പർ മാത്രം തിരയണം തുടർന്ന് മുഴുവൻ ഖണ്ഡികയും ഓരോ വാക്കും വായിക്കരുത് തുടർന്ന് ആ നമ്പറിനായി തിരയുക അതിനാൽ നിങ്ങൾ എക്സ് റേ ചെയ്യുന്നതുപോലെ നിങ്ങളുടെ കണ്ണുകൾ ഒരു സ്കാനർ പോലെ ഉപയോഗിക്കുക തുടർന്ന് നിങ്ങളുടെ എക്സ് റേ കണ്ണുകളിലൂടെ നിങ്ങൾക്ക് ആ ഒരു വാക്ക് ലഭിക്കും അതിനാൽ അത് പുറത്തെടുക്കുക അതിനാൽ അത് സ്കാനിംഗ് ആണ് അതിനാൽ ഇപ്പോൾ നിങ്ങൾ സ്കിം ചെയ്യേണ്ടിവരുമ്പോൾ നിങ്ങൾ വളരെ വേഗത്തിൽ വായിക്കുന്നില്ല തുടർന്ന് ആ വിവരങ്ങൾ നേടാൻ ശ്രമിക്കുക നിങ്ങൾ ഇവിടെ ഉള്ളടക്കം മനസിലാക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഉള്ളടക്കത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നില്ല നിങ്ങൾ ചില പ്രധാന വിവരങ്ങൾക്കായി തിരയുന്നു അതിനാൽ ഇവ രണ്ടും പ്രധാന സാങ്കേതികവിദ്യകളാണ് പ്രത്യേകിച്ചും നിങ്ങൾക്ക് ധാരാളം സമയം ലാഭിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അസൈൻമെന്റുകളിൽ ഉത്തരം നൽകുന്ന ചോദ്യങ്ങൾ പോലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കിമ്മിംഗ് സ്കാനിംഗ് രീതി ഉപയോഗിക്കാം ഇപ്പോൾ നിങ്ങൾ മുമ്പ് കേട്ട ഒരു പ്രത്യേക പേര് നിങ്ങൾ തിരയേണ്ടതുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ നിന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഇത് വീഡിയോയെ ഒരുതരം വായനയായി കാണുന്നതിന്റെ കാര്യത്തിലാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇത് യഥാർത്ഥ പാഠപുസ്തക വായനയിൽ ഉപയോഗിക്കുന്നു ഇപ്പോൾ അടുത്ത രസകരമായ സാങ്കേതികത ക്ലസ്റ്ററിംഗ് ആണ് ഇപ്പോൾ നിങ്ങളുടെ വായനാ വേഗത വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ ഗ്രാഹ്യവും വികസിപ്പിക്കാനും നിങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾ പരിശീലിക്കേണ്ട ഒന്നാണ് ക്ലസ്റ്ററിംഗ് ഇപ്പോൾ സ്കാനിംഗിലും സ്കിമ്മിംഗിലും നിങ്ങൾ ശരിക്കും ഗ്രാഹ്യം വികസിപ്പിക്കുന്നില്ല അർത്ഥങ്ങൾ ശരിയായി വ്യാഖ്യാനിക്കാനുള്ള നിങ്ങളുടെ കഴിവാണ് ഗ്രാഹ്യം ഇപ്പോൾ നിങ്ങളിൽ ചിലർ ഏതുതരം വായനാ രീതിയാണ് പിന്തുടരുന്നത് നിങ്ങളിൽ ചിലർ ഒരു വാചകം ഓരോ വാക്കോ വാക്കുകൾ ഓരോ അക്ഷരമോ വായിക്കുന്നുണ്ടാകാം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ദിവസം ഒരു ആപ്പിൾ ഡോക്ടറെ അകറ്റിനിർത്തുന്നു പോലെയുള്ള ഒരു ലളിതമായ വാചകം ചില ആളുകൾ ഇതുപോലുള്ള ഒരു ലളിതമായ വാചകം എങ്ങനെ വായിക്കുന്നു അവർ വായിക്കുന്ന വായന ശീലം എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു ആപ്പിൾ ഡോക്ടറെ അകറ്റിനിർത്തുന്നു ഒരു ദിവസം ഒരു ആപ്പിൾ ഡോക്ടറെ അകറ്റിനിർത്തുന്നു ഒരു ദിവസം ഒരു ആപ്പിൾ ഡോക്ടറെ അകറ്റിനിർത്തുന്നു ഇപ്പോൾ ഇതിനേക്കാൾ മോശമായ ചില ആളുകൾ ഇപ്പോഴും ഓരോ അക്ഷരം വായിക്കുകയും തുടർന്ന് ഓരോ വാക്കിൽ പോകുകയും ചെയ്യുന്ന ശീലമുണ്ടായിരിക്കാം

ഇപ്പോൾ ഒരു ദിവസം ഒ ഒ ഒരു ആപ്പിൾ ഡോക്ടറെ ഡോക്ടറെ അകറ്റിനിർത്തുന്നു അകറ്റിനിർത്തുന്നു ഒരു ദിവസം ഒരു ആപ്പിൾ ഡോക്ടറെ അകറ്റിനിർത്തുന്നു ഇപ്പോൾ ഇത് നിങ്ങളുടെ വായനാ വേഗത വികസിപ്പിക്കുന്നതിനുള്ള ചീഞ്ഞ മാർഗമാണെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഇത് സഹായിക്കാൻ പോകുന്നില്ല ഈ രീതി നിങ്ങൾക്ക് എങ്ങനെ നിർത്താൻ കഴിയും വേഗതയ്ക്കും ഗ്രാഹ്യത്തിനും ക്ലസ്റ്ററിംഗ് രീതി ഉപയോഗിക്കുക ഒറ്റനോട്ടത്തിൽ മൂന്നോ നാലോ വാക്കുകളുള്ള ഗ്രൂപ്പുകളായി വാക്കുകൾ കാണാൻ നിങ്ങളുടെ കണ്ണുകളെ പരിശീലിപ്പിക്കുക ഒറ്റനോട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ആപ്പിൾ ഒരു ദിവസം ഡോക്ടറെ അകറ്റി നിർത്തുന്നു എന്ന് മനസ്സില്ലാക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒരു ദിവസം ഒരു ആപ്പിൾ ഡോക്ടറെ അകറ്റി നിർത്തുന്നു അതിനാൽ നിങ്ങൾക്ക് അത് വേഗത്തിൽ വായിക്കാൻ കഴിയും തുടർന്ന് ചില ആളുകൾക്ക് കൂടുതൽ വാക്കുകൾ ഗ്രൂപ്പുചെയ്യാൻ കഴിയും ഒരു ആപ്പിൾ ഒരു ദിവസം ഡോക്ടറെ അകറ്റിനിർത്തുന്നു ഒരു ആപ്പിൾ ഒരു ദിവസം ഡോക്ടറെ അകറ്റിനിർത്തുന്നു അതിനാൽ നിങ്ങൾ ഇത് വേഗത്തിൽ നോക്കുമ്പോൾ ചില ആളുകൾ വേഗതയുള്ളവരാണ് അവർക്ക് 4 വാക്കുകൾ കൂടി ചേർക്കാൻ കഴിയും ഒരു ആപ്പിൾ ഒരു ദിവസം ഡോക്ടറെ അകറ്റി നിർത്തുന്നു അതിനാൽ ഒരൊറ്റ വാക്യത്തിൽ 2 ഗ്രൂപ്പുകൾ രൂപപ്പെടുന്നത് അവരെ ഗ്രൂപ്പുകളായി ആകർഷിക്കുകയും തുടർന്ന് ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ അർത്ഥം തിരിച്ചറിയുകയും തുടർന്ന് വളരെ വേഗത്തിൽ അർത്ഥം ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ചില രസകരമായ ഘടകങ്ങളും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും ആദ്യം മനസിലാക്കുക ഓരോ ഗ്രൂപ്പിലും 3 വ്യത്യസ്ത ആളുകൾക്ക് ഓരോ ഗ്രൂപ്പിലും കുറഞ്ഞതോ കൂടുതലോ ആയി 3 വ്യത്യസ്ത രീതികളിൽ വാക്കുകൾ ഗ്രൂപ്പുചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു എന്നാൽ അതേ സമയം വാക്കുകൾ വ്യത്യസ്ത രീതിയിൽ ഗ്രൂപ്പുകളാകാം വളരെ പ്രധാനപ്പെട്ട ഒരു നൈപുണ്യമായ ഈ വൈദഗ്ദ്ധ്യം നിങ്ങൾ എങ്ങനെ വികസിപ്പിക്കും ആരും നിങ്ങളെ ശല്യപ്പെടുത്താത്ത ഒരു സ്ഥലത്ത് ഇരിക്കാൻ നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കുകയും ഒരു വായന തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ ഗ്രൂപ്പിംഗ് രീതി ക്ലസ്റ്ററിംഗ് രീതി ഉപയോഗിച്ച് പതുക്കെയുള്ള വേഗതയിൽ ശ്രമിക്കുക നിങ്ങൾ ഗ്രൂപ്പുകളിലെ വാക്കുകൾ തിരിച്ചറിയുകയും തുടർന്ന് നിങ്ങളുടെ സ്വന്തം മെല്ലെ വായിക്കുകയും ചെയ്യുന്നു എന്നാൽ മുമ്പത്തെ സാധാരണ രീതിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് അൽപ്പം വേഗതയുള്ളതാണ് നിങ്ങൾ പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ അത് ഒരു പുതിയ അജ്ഞാത ഭാഗമായിരിക്കണം ഇപ്പോൾ വീണ്ടും എഴുത്തിന്റെ ഭാഗത്തേക്ക് പോയി നിങ്ങൾ അത് ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നും ഇത്തവണ നിങ്ങൾ അത് സാധാരണ വേഗതയിൽ വായിക്കുന്നുണ്ടോ എന്നും നോക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ശരിയായി മനസ്സിലായിട്ടുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ വേഗത വർദ്ധിപ്പിക്കുക അജ്ഞാതമായ മറ്റൊരു ഭാഗം തിരഞ്ഞെടുക്കുക വീണ്ടും ഗ്രൂപ്പുചെയ്ത് വളരെ വേഗത്തിൽ വായിക്കുക തുടർന്ന് നിങ്ങൾ റീഡിംഗ് സ്റ്റോപ്പ് പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സാധാരണ വേഗതയിൽ നിങ്ങളുടെ ഗ്രാഹ്യം വീണ്ടും പരിശോധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക രണ്ടാമത്തെ സാധാരണ വായനയിൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷം നിങ്ങളുടെ വേഗത വർദ്ധിക്കും കാലക്രമേണ നിങ്ങൾ അത് ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് രണ്ടാമത്തെ വായന ആവശ്യമില്ല കാരണം വാക്കുകൾ ഗ്രൂപ്പുചെയ്യാനും ആദ്യ ഗ്രൂപ്പിംഗിൽ തന്നെ അർത്ഥങ്ങൾ ഉചിതമായി നേടാനും നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ പരിശീലിപ്പിക്കുമായിരുന്നു എന്നാൽ ഇത് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റരാത്രികൊണ്ട് അത് സംഭവിച്ചില്ലെങ്കിൽ നിരാശപ്പെടേണ്ടതില്ലെന്നും ഞാൻ നിങ്ങളോട് പറയണം കാരണം നിങ്ങൾ കഠിനാധ്വാനമില്ലാതെ എളുപ്പത്തിൽ ഒന്നും നേടുന്നില്ല നിങ്ങൾ പതിവായി പരിശീലിക്കേണ്ടതുണ്ട് വ്യത്യസ്ത എഴുത്തുകൾ ഉപയോഗിച്ച് നിങ്ങൾ അത് പരിശീലിക്കേണ്ടതുണ്ട് എല്ലായ്പ്പോഴും ആദ്യം വേഗത്തിൽ വായിക്കുക രണ്ടാമത്തെ വായന സാധാരണ വേഗതയിൽ വായിക്കുക നിങ്ങൾ ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് താരതമ്യം ചെയ്യുക തുടർന്ന് ഉയർന്ന വേഗതയിലേക്ക് പോകുക നിങ്ങൾ എത്തുമ്പോൾ സാധ്യമായ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തുക തുടർന്ന് ഗ്രൂപ്പുകളിൽ എല്ലാം വായിക്കാൻ തുടങ്ങുക അതിനാൽ അത് പത്രമായാലും മാസികയായാലും അത് ഒരു നോവൽ വായനയായാലും നിങ്ങൾ വേഗത്തിൽ വായിക്കാൻ നിങ്ങളുടെ കണ്ണുകളെ പരിശീലിപ്പിക്കുക അതിനാൽ ബുദ്ധിമുട്ടുള്ളവയാണെന്ന് നിങ്ങൾ കരുതിയ പുസ്തകങ്ങൾ മുമ്പത്തേതിനേക്കാൾ വളരെ വേഗത്തിൽ വായിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഉയർന്ന വേഗതയിൽ വായിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾ ഒരു സങ്കീർണ്ണമായ വായനക്കാരനാകുമ്പോൾ നിങ്ങൾ വികസിപ്പിക്കേണ്ട ഒരു സാങ്കേതികവിദ്യ ഈ ക്ലോസ് റീഡിങ്ങാണ് ഈ ക്ലോസ് റീഡിംഗ് എന്താണ് എന്നിരുന്നാലും ഈ ഘട്ടത്തിൽ നിങ്ങളിൽ ചിലർക്ക് ഇത് അത്ര പ്രസക്തമല്ലായിരിക്കാം പക്ഷേ ക്ലോസ് റീഡിംഗ് എന്നത് നിങ്ങൾ പുസ്തകങ്ങളുടെ പ്രത്യേകിച്ച് നോവലുകളുടെ സാഹിത്യ വിഷയങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ആഴത്തിലുള്ള ദാർശനിക ആശയങ്ങളുടെ തീക്ഷ്ണമായ വായനക്കാരനായിത്തീർന്നുകഴിഞ്ഞാൽ നിങ്ങൾ വികസിപ്പിക്കേണ്ട ഒന്നാണ് അതിനാൽ നിങ്ങൾ ക്ലോസ് റീഡിംഗ് ചെയ്യേണ്ടതുണ്ട് നിലവിലുള്ള അർത്ഥങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ആശയങ്ങളുടെ അഭിനന്ദന വ്യാഖ്യാനത്തിനായി ക്ലോസ് റീഡിംഗ് നടത്തുന്നു സാധാരണയായി ഇത് സാഹിത്യ മതപഠനങ്ങളിലെ ദാർശനിക പഠനങ്ങളിലാണ് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് ഒരേ വാക്യത്തെ 1011 ലധികം വഴികളിൽ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട് ഓരോ വാക്കും അതിന്റെ എല്ലാ പ്രത്യാഘാതങ്ങൾക്കും വ്യാകരണ വർഗ്ഗീകരണത്തിനും പോലും പഠിക്കുന്നു ചില വ്യാകരണ നിയമങ്ങൾ ലംഘിക്കുകയും എന്തെങ്കിലും പിന്തുടരുകയും ഈ വാക്ക് ഇവിടെ ഈ സ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്യുന്നതിലൂടെ അത് എങ്ങനെ വ്യത്യസ്തമായ അർത്ഥം ഉണ്ടാക്കുന്നു അതിനാൽ വാക്ക് അവസാനത്തിൽ സൂക്ഷിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത് തുടക്കത്തിൽ സൂക്ഷിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു എഴുത്തുകാരൻ ഒരു വാക്കിന്റെ മുൻവശത്തോ പശ്ചാത്തലത്തിലോ എങ്ങനെ ശ്രമിക്കുന്നു ഒരു എഴുത്തുകാരൻ വാക്കിന്റെ യഥാർത്ഥ അർത്ഥവുമായി എങ്ങനെ കളിക്കാൻ ശ്രമിക്കുന്നു ഈ സന്ദർഭത്തിൽ അതിനാൽ ഓരോ വാക്കും ആന്തരികവും ആഴത്തിലുള്ളതുമായ അർത്ഥങ്ങൾക്കായി സൂക്ഷ്മപരിശോധന നടത്തുന്നു തുടർന്ന് പൊതുവെ വിമർശകരുമായി സാമ്യമുള്ള ഈ വായനക്കാർ നിങ്ങൾ തീയെ നോക്കുമ്പോൾ നിഘണ്ടു അർത്ഥം സൂചിപ്പിക്കുന്ന അർത്ഥത്തിൽ സംതൃപ്തരല്ല അതിനാൽ ഒരു സ്റ്റൌ കത്തിക്കുമ്പോൾ വരുന്ന ഒരു കാര്യമാണ് തീ എന്ന് നിങ്ങൾക്കറിയാം തുടർന്ന് നിങ്ങൾ ഒരു തീപ്പെട്ടി കത്തിക്കുമ്പോൾ തീ വരുന്നു തുടർന്ന് നിങ്ങൾ വിരൽ വയ്ക്കുമ്പോൾ അത് നിങ്ങളെ കത്തിക്കുന്നു അതാണ് തീ സൂചിപ്പിക്കുന്ന അർത്ഥം എന്നാൽ സാഹിത്യത്തിലെ തീ എന്നാൽ അഭിനിവേശം എന്നാൽ വളരെ ശക്തമായ ആന്തരിക വികാരങ്ങൾ എന്നാൽ ആഗ്രഹം എന്ന് അർത്ഥമാക്കാം അതിനാൽ ഇതാണ് അർത്ഥവത്തായ അർത്ഥം ഒരു സന്ദർഭത്തിൽ അതിനാൽ ആരാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് മറ്റെന്തെങ്കിലും അർത്ഥമാക്കാം തുടർന്ന് ഉപയോക്താക്കൾ ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് ഇത് എന്തെങ്കിലും അർത്ഥമാക്കാം അതിനാൽ അടുത്ത് വായിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നതിനേക്കാൾ ബന്ധിതവും സന്ദർഭോചിതവുമായ അർത്ഥങ്ങൾ നോക്കാൻ ശ്രമിക്കുന്നു വാസ്തവത്തിൽ വാക്കുകൾക്കിടയിൽ വായിക്കുന്ന വരികൾക്കിടയിൽ അവർ വായിക്കുന്നു എന്താണ് നഷ്ടപ്പെട്ടതെന്ന് കാണാൻ അവർ ആഗ്രഹിക്കുന്നു അവർക്ക് എങ്ങനെ കൂടുതൽ കണക്ഷനുകൾ നൽകാൻ കഴിയും നോവൽ ഗവേഷണ സാമഗ്രികൾ അല്ലെങ്കിൽ എഴുതപ്പെട്ട ഒരു തരത്തിലുള്ള ലേഖനം എന്നിവയെക്കുറിച്ച് വളരെ ആഴത്തിലുള്ളതും മെച്ചപ്പെട്ടതുമായ ധാരണ ഇത് മൊത്തത്തിൽ നൽകുന്നു ഉദാഹരണത്തിന് അടുത്ത വായനയിൽ നിങ്ങൾ ഒരു നോവൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു പുതിയ വ്യാഖ്യാനം നൽകാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത വായനയിൽ ആളുകൾക്ക് മുമ്പ് മനസ്സിലാകാത്ത ഒരു തെറ്റിദ്ധാരണ പരിഹരിക്കാനോ കഴിയും അതിനാൽ ഇപ്പോൾ ഇവയാണ് പ്രധാന സാങ്കേതികവിദ്യകൾ ഒരു സമാപന ചിന്ത എന്ന നിലയിൽ വായനയിൽ നിങ്ങൾ രണ്ട് സുവർണ്ണ തത്വങ്ങൾ പാലിക്കാൻ നിങ്ങൾ ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുകയായിരുന്ന ഒന്ന് നിങ്ങൾക്ക് ആസക്തി നൽകുന്ന ഒരു മോശം ശീലവും വളർത്തിയെടുക്കരുത് പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ആസക്തി വളർത്തിയെടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഇളവ് നൽകും ഇത് യഥാർത്ഥത്തിൽ വായനയുടെ കാര്യത്തിൽ ഒരു നല്ല ശീലമാണ് വായന ഒരുതരം ആസക്തിയായി മാറട്ടെ പുസ്തകങ്ങളാൽ ചുറ്റപ്പെട്ടില്ലെങ്കിൽ ഉറങ്ങാൻ കഴിയാത്ത പ്രശസ്ത എഴുത്തുകാർ ഉണ്ട് ആ എഴുത്തുകാർക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല പത്രം ഇല്ലെങ്കിൽ അവർക്ക് നിരാശ തോന്നുന്നു അതിനാൽ അവർ ശൌചാലയത്തിലായിരിക്കുമ്പോൾ ബസിൽ കാത്തിരിക്കുമ്പോൾ ട്രെയിനിൽ ഇരിക്കുമ്പോൾ എല്ലായ്പ്പോഴും എന്തെങ്കിലും വായിക്കേണ്ടതുണ്ട് അതിനാൽ അവർ കുളിക്കുമ്പോഴും അതിനാൽ അവർ ഒരു കൈകൊണ്ട് പുസ്തകം സൂക്ഷിക്കുകയും തുടർന്ന് അവരുടെ ബാത്ത് ടബിനുള്ളിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു അതിനാൽ അവർ ഭക്ഷണം കഴിക്കുമ്പോഴും ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്തുന്നില്ല അവർ വായിക്കുന്നത് തുടരുന്നു വാസ്തവത്തിൽ അവർ വായിക്കുന്നത് നിർത്തുന്നില്ല അത്തരം ആസക്തി നിങ്ങൾ വികസിപ്പിക്കേണ്ട ഒന്നാണ് കാരണം ഞാൻ പറഞ്ഞ എല്ലാ കാരണങ്ങളാലും വായന വായന വികസിപ്പിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് മറ്റെല്ലാ കഴിവുകളും വികസിപ്പിക്കാൻ കഴിയൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനാൽ അത് അവതരണമോ എഴുത്തോ ഫലപ്രദമായി ആശയവിനിമയം നടത്തുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള വ്യക്തിത്വം വികസിപ്പിക്കുകയോ ആകട്ടെ വായന വളരെ നിർണായക പങ്ക് വഹിക്കുന്നു ഇത് വിഷയത്തിന്റെ കാതലാണ് നിങ്ങൾ ശ്രദ്ധിക്കുകയും വായനയോടുള്ള ആസക്തി വളർത്തുകയും വേണം ആരോഗ്യകരമായ ഒരു ആസക്തിയാണ് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട രണ്ടാമത്തെ സുവർണ്ണ നിയമ തത്വം നിങ്ങൾ എന്തെങ്കിലും വായിക്കാൻ തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് അത് ഏത് വായനാ സാമഗ്രിയും ആകാം അത് പത്രമാകാം അല്ലെങ്കിൽ എന്തുമാകാം അത് പൂർത്തിയാക്കുക്ക എന്നതാണ് അതിനാൽ നിങ്ങൾ ഒരു നോവൽ വായിക്കാൻ തുടങ്ങുമ്പോൾ അത് അതിനിടയിൽ ഉപേക്ഷിക്കരുത് വാസ്തവത്തിൽ ഈ നോവൽ 3 മണിക്കൂർ സമയമെടുക്കുമെന്ന് നിങ്ങൾ വിലയിരുത്തുന്ന സമയം സൃഷ്ടിക്കുക 3 മണിക്കൂർ നിങ്ങൾ ടിവിയിൽ നിന്ന് അകന്ന് മൊബൈലിൽ നിന്ന് അകലെയുള്ള ആളുകളിൽ നിന്ന് ഒരു ഒറ്റപ്പെട്ട സ്ഥലം തിരഞ്ഞെടുത്ത് ആരെങ്കിലും നിങ്ങളെ ശല്യപ്പെടുത്തുമോ എന്ന് തിരിച്ചറിയുകയും ആരും നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കുകയും തുടർന്ന് അത് ആരംഭിച്ച് പൂർത്തിയാക്കുകയും തുടർന്ന് നിങ്ങളുടെ സാധാരണ ജോലിസ്ഥലത്തേക്ക് മടങ്ങുകയും ചെയ്യുക അതിനാൽ നിങ്ങൾ പ്രത്യേകിച്ചും വായനയുടെ കാര്യത്തിൽ എന്തെങ്കിലും ആരംഭിക്കുകയാണെങ്കിൽ അത് പൂർത്തിയാക്കുക പ്രശസ്ത എഴുത്തുകാരനായ ഓസ്കാർ വൈൽഡിന്റെ ഒരു ഉദ്ധരണിയുടെ അടിസ്ഥാനത്തിൽ സമാപന പോയിന്റും അത് മൂല്യവത്താണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ നിങ്ങൾ വായിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നത് ഓർക്കുക അതിനർത്ഥം ഇന്ന് ഞാൻ നിങ്ങളോട് വായിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഉദാഹരണത്തിന് സ്റ്റീഫൻ കോവിയുടെ വളരെ ഫലപ്രദമായ ആളുകളുടെ ഏഴ് ശീലങ്ങൾ പരീക്ഷയ്ക്ക് പ്രസക്തമായ നിങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക് കുന്നത് നിങ്ങൾക്ക് പ്രസക്തമാണെന്ന് കരുതി നിങ്ങൾ വായിക്കുന്നു പരീക്ഷയില്ലാത്തപ്പോൾ നിങ്ങൾ വായിക്കുന്നത് ആരും നിങ്ങളോട് ഒന്നും ചെയ്യാൻ ആവശ്യപ്പെടാത്തപ്പോൾ നിങ്ങൾ എന്താണ് വായിക്കുന്നത് അത് വളരെ ക്ലാസിക്കൽ നോവലാണോ അതോ ചില നിസ്സാര കാര്യങ്ങളോ അല്ലെങ്കിൽ ചില ഉപയോഗശൂന്യമായ കാര്യങ്ങളോ ആകട്ടെ നിങ്ങൾക്ക് വായിക്കാൻ താൽപ്പര്യമുള്ളത് എന്താണ് നിങ്ങൾക്ക് ഒരു നിർബന്ധവുമില്ലാത്തപ്പോൾ അദ്ധ്യാപകൻ നിങ്ങളോട് ഒരു പരീക്ഷയിലും വിജയിക്കേണ്ടതില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് വായിക്കുക എന്നത് നിങ്ങൾ എന്തായിരിക്കുമെന്ന് നിർണ്ണയിക്കുന്നുവെന്നാണ് ഓസ്കാർ വൈൽഡ് പറയുന്നത് നിങ്ങൾക്ക് സഹായകരമല്ലാത്തപ്പോൾ നിങ്ങൾ വായിക്കുക എന്നതുകൊണ്ട് അദ്ദേഹം എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ സമയത്തിന്റെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ഒരു ബഹിരാകാശയാത്രികനാകാൻ ആഗ്രഹിച്ച ഒരാളാകാൻ പോകുന്നു പക്ഷേ നിങ്ങൾ ഒരു സർക്കാർ ഓഫീസിൽ ഒരു ഗുമസ്തനായി അവസാനിക്കും അതിനാൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എല്ലാ സ്വപ്നങ്ങളുടെയും ഒടുവിൽ നിങ്ങൾ ഒരാളായി മാറുന്നു ഓസ്കാർ വൈൽഡ് പറയുന്നു ഒടുവിൽ ഒരാളായിത്തീരുന്നത് നിർണ്ണയിക്കുന്നത് നിങ്ങൾ വായിക്കുമ്പോൾ എന്താണ് വായിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അത് ആവശ്യമില്ലാത്തപ്പോൾ അധിക വായനയാണ് ശുദ്ധമായ ആനന്ദത്തിനായി ചെയ്യുന്ന വായന നിങ്ങളുടെ ജിജ്ഞാസയ്ക്കായി ചെയ്യുന്ന വായന അതിനാൽ അത് നിങ്ങളുടെ അന്തിമ വ്യക്തിത്വത്തെ നിർണ്ണയിക്കാൻ പോകുന്ന ഒന്നാണ് അതിനാൽ അത് മനസ്സിൽ വയ്ക്കുക അതിനാൽ ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ വായിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതേ സമയം തുല്യ ശ്രദ്ധയോ അതിലും കൂടുതലോ നൽകുക വായിക്കേണ്ടതില്ലാത്ത കാര്യങ്ങളിൽ തുല്യ ശ്രദ്ധയോ കൂടുതൽ ശ്രദ്ധയോ നൽകുക അതിനാൽ ഈ ചിന്തയോടെ നമ്മൾ അടുത്ത പ്രഭാഷണത്തിലേക്ക് പോകും ഇത് പറഞ്ഞുകഴിഞ്ഞാൽ കുറഞ്ഞത് ഇന്ന് മുതൽ ഒരു പുസ്തകമെങ്കിലും വായിക്കാൻ തുടങ്ങുക തുടർന്ന് കുറഞ്ഞത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു പുസ്തകമെങ്കിലും പൂർത്തിയാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു മാസമെങ്കിലും ലക്ഷ്യമിടുക തുടർന്ന് നിങ്ങൾ എത്ര പുസ്തകങ്ങൾ വായിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ആരോഗ്യകരമായ ശീലം നിലനിർത്തുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകമായിരിക്കാം അത് നോവലാകാം ചെറുകഥ കവിതയായിരിക്കാം അത് വെറും നോൺ ഫിക്ഷൻ ആകാം അത് യാത്രാ രചനയുമായി ബന്ധപ്പെട്ടിരിക്കാം അത് കാറുമായി ബന്ധപ്പെട്ടിരിക്കാം തുടർന്ന് അത് ചില ബൈക്ക് മെക്കാനിസവുമായി ബന്ധപ്പെട്ടിരിക്കാം നിങ്ങൾ വായിക്കുന്ന രസകരമായതെന്തും ഞാൻ പറഞ്ഞതുപോലെ കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും വായിക്കുക ഉടൻ തന്നെ നിങ്ങൾ വളരെ പഠിച്ച വ്യക്തിയായി മാറും അതിനാൽ ഞാൻ നൽകിയ വായനയും വായനാ നുറുങ്ങുകളും ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി